തിരികെ സ്വാഗതം ഇത് ലെക്ച്ചർ നമ്പർ 44 ആണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനുകൾ ളെക്കുറിച്ച് സംസാരിക്കും പ്രത്യേകിച്ചും ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷനുകളുടെ റാങ്ക് നള്ളിറ്റി തിയറത്തെക്കുറിച്ചും ലീനിയർ ട്രാൻസ്ഫോർമേഷനുകളുടെ കേർണലിനെക്കുറിച്ചും ലീനിയർ ട്രാൻസ്ഫോർമേഷനുകളുടെ ഇമേജിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും അതിനാൽ ലീനിയർ മാപ്പിംഗ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് ഞാൻ ആരംഭിക്കാം ഇവിടെ നമ്മൾ ഈ രണ്ട് വെക്റ്റർ സ്പേസ്കളെക്കുറിച്ച് സംസാരിക്കുന്നു X ഉം Y ഉം രണ്ട് വെക്റ്റർ സ്പെയ്സുകളും F X → Y മാപ്പിംഗി നെ ഇനിപ്പറയുന്ന രണ്ട് കണ്ടീഷൻകൾ തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ മാപ്പിംഗ് എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ കണ്ടീഷൻകൾ എന്തൊക്കെയാണ് ഈ വെക്റ്റർ സ്പേസ് X ൽ നിന്നുള്ള ഏതെങ്കിലും രണ്ട് u v വെക്റ്ററുകൾക്ക് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രയോഗിക്കുകയാണെങ്കിൽ എന്നായിരിക്കണം അതിനാൽ ഈ രണ്ട് കണ്ടീഷനുകളിൽ ഒന്നാണ് ഇത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയാൻ ഇത് ആവശ്യമാണ് രണ്ടാമത്തെ കണ്ടീഷൻ റിയൽ നമ്പറുകളുടെ സെറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു സ്കെലാർ k ഏതെങ്കിലും വെക്റ്ററായ u∈X ഇവ തമ്മിലുള്ള ഗുണനം F നെ തൃപ്തിപ്പെടുത്തണം

ഇവിടെ 2 റിമാർക്കുകൾ മുകളിൽ കൊടുത്തിരിക്കുന്ന 2 കണ്ടീഷനുകളിന്മേൽ 2 റിമാർക്കുകളുണ്ട് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത and എന്നീ 2 കണ്ടീഷനുകളും ഒന്നായി കൂട്ടിച്ചേർക്കുകയും എന്നതു പോലെ എഴുതുകയും ചെയ്യാം ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി രണ്ടും സംയോജിപ്പിക്കുന്നു ഒന്ന് ഇവിടെ ഈ u പ്ലസ് v കൂട്ടിച്ചേർക്കുന്നതായിരുന്നു ഇത് ഇതിനകം ഇവിടെയുണ്ട് എന്നത് ന് തുല്യമായിരിക്കണം ഉദാഹരണത്തിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് ആയും പിന്നീട് ഈ അതിലേക്ക് കൂട്ടുന്നതായും ചിന്തിക്കും ഇത് കൃത്യമായി കണ്ടീഷൻ നമ്പർ 1 ആണ് ഇത് ന് തുല്യമായിരിക്കണമെന്ന് കണ്ടീഷൻ നമ്പർ 2 നൽകുന്നു അതിനാൽ രണ്ട് കണ്ടീഷനുകളും തൃപ്തിപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ എന്ന ഈ അവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ അത് ന് തുല്യമാണെങ്കിൽ നൽകിയ ട്രാൻസ്ഫോർമേഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണെന്ന് നമുക്ക് വിളിക്കാം ക്ക് രണ്ടാമത്തെ കണ്ടീഷൻൽ നമ്മൾ k 0 ഇട്ടാൽ അത് എന്ന് നൽകും ഇവിടെ ഇടതുവശത്ത് എന്നത് വെക്റ്റർ സ്പേസിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഇത് 0 വെക്റ്റർ ആയിരിക്കണം വലതുവശത്ത് 0 ആയി ഗുണിക്കുമ്പോൾ എന്നത് വെക്റ്റർ സ്പേസ് X ലെ ഒരു എലെമെന്റാണ് അതിനാൽ എന്നത് 0 വെക്റ്റർ ആയിരിക്കണം ഇത് Y ലെ 0 വെക്റ്റർ നൽകുന്നു അതിനാൽ അത് അർത്ഥമാക്കുന്നത് 0 വെക്റ്റർലേക്ക് മാപ് ചെയ്യുന്നു ഓരോ ലീനിയർ ട്രാൻഫോർമേഷനും ഡൊമെയ്ൻ X ൽ നിന്ന് 0 വെക്റ്റർ range ലെ 0 വെക്റ്ററിലേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ വെക്റ്റർ സ്പേസുകൾക്കായി നമുക്ക് വേഗത്തിൽ നോക്കാവുന്ന മറ്റൊരു പ്രധാന പ്രോപ്പർട്ടി ആണ് അത് അതായത് അതിനാൽ വെക്റ്റർ സ്പെയ്സ് X ലെ 0 വെക്റ്റർ വെക്റ്റർ സ്പെയ്സ്സ് Y യിലെ 0 വെക്റ്ററിലേക്ക് മാപ്പ് ചെയ്യണം ഈ ലീനിയർ മാപ്പുകൾ കാണുന്ന ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു ആദ്യം ഇവിടെ എന്ന രൂപത്തിൽ നിർവ്വചിച്ചിരിക്കുന്ന ഫങ്ങ്ഷൻ അനുവദിക്കുക ഇവിടെ ഈ ന്റെ എല്ലാ ഘടകങ്ങളും ഈ കൊണ്ട് സൂചിപ്പിക്കുകയും ഇത് ലേക്ക് മാപ്പ് ചെയ്യുകയും ചെയ്യുന്നു x y 0 അതിനാൽ ഈ പോയിന്റ് ന്റെ xy പ്ലെയിൻലെ ഒരു പ്രൊജക്ഷൻ ആണ് ഈ മാപ്പ് ഒരു ലീനിയർ മാപ് ആണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും അതിനായി ഈ ൽ നിന്ന് നമ്മൾ രണ്ട് ഘടകങ്ങൾ എടുക്കുന്നു ഒന്ന് മറ്റൊന്ന് നമ്മൾ ഈ എടുത്തു ഇപ്പോൾ രണ്ട് പ്രോപ്പർട്ടികളിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ഇതാണ് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അവ നമ്മൾക്ക് നൽകണം അത് നമ്മൾ ഇവിടെ പരിശോധിക്കും

അതിനാൽ ഈ ലിനിയാരിറ്റിയുടെ ആദ്യ കണ്ടീഷൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഈ കേസിൽ നിസ്സാരമായ രണ്ടാമത്തേത് നമ്മൾ പരിശോധിക്കും അതിനാൽ ഈ സ്കെയിലർ നമ്പർ ക്ക് നമ്മൾ പരിഗണിക്കുന്നു അതിനാൽ ഇവിടെ ലീനിയർ മാപ്പിനുള്ള എന്നീ രണ്ട് കണ്ടീഷനുകളും തൃപ്തിപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ൽ നിന്ന് ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന മാപ്പ് ഒരു ലീനിയർ മാപ്പാണ് ഇത് ഇവിടെ ഒരു പ്രൊജക്ഷൻ മാപ്പാണ് അത് ശരി എന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം നമ്മൾ എടുക്കുന്നു എന്ന രൂപത്തിൽ നിർവ്വചിച്ചിരിക്കുന്ന ഫങ്ങ്ഷൻ എടുക്കുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് ഇതൊരു ലീനിയർ മാപ്പ് ആണോ അതോ ലീനിയർ മാപ്പ് അല്ലയോ എന്നതാണ് ഇത് ഇവിടെ നിന്ന് വ്യക്തമാണ് കാരണം ലീനിയർ മാപ്പ്ന്റെ ഒരു പ്രത്യേകത അത് എല്ലായ്പ്പോഴും 0 വെക്റ്റർ 0 വെക്റ്റർലേക്ക് മാപ്പ് ചെയ്യുന്നു എന്നതാണ് ഇവിടെ ൽ നമ്മളുടെ 0 എലമെൻറ് അല്ലാതെ മറ്റൊന്നുമല്ല അത് ലെ ഒരു എലമെൻറ് ആണ് അതിനാൽ ഒരു ലീനിയർ മാപ്പ് ആണെങ്കിൽ ഈ എലമെൻറ് ലേക്ക് മാപ്പ് ചെയ്യുക എന്നത് ഈ ലീനിയർ മാപ്പിന്റെ ഒരു അനിവാര്യ വ്യവസ്ഥയാണ് എന്നാൽ ഈ പ്രയോഗിക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് നിരീക്ഷിക്കുന്നത് നമുക്ക് എന്താണ് ലഭിക്കുന്നത് നമ്മൾക്ക് ലഭിക്കുന്നു അതിനാൽ ഈ രീതിയിൽ ഇത് ഒരു ലീനിയർ മാപ്പ് ആയിരിക്കില്ല കാരണം ഇത് എലെമെന്റിനെ എലെമെന്റിലേക്ക് മാപ്പുചെയ്യുന്നില്ല പക്ഷേ ഇത് എലെമെന്റിനെ എലെമെന്റിലേക്ക് മാപ്പ് ചെയ്യുന്നു അത് ഒരു ലീനിയർ മാപ്പ് ആകാൻ കഴിയില്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദാഹരണം മെട്രിക്സുകളെല്ലാം ലീനിയർ മാപ്പുകൾ പോലെയാണ് കാരണം നമ്മൾ ഏതെങ്കിലും മാട്രിക്സ് എടുക്കുന്നു A എന്നത് ഈ ൽ നിന്ന് ലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് അതിവിടെ ൽ നിന്നുള്ള x എന്ന ഒരു എലെമെന്റിനെ A കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലെ ഒരു എലമെന്റ് ലഭിക്കും എന്ന വിധത്തിൽ നിർവ്വചിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ A എന്നത് ഈ ൽ നിന്ന് ലേക്ക് ഉള്ള മാപ്പ് പോലെയാണ് കാരണം ഇത് എന്ന ഈ നിർവചനം ഇവിടെ എടുക്കുന്നു അതിനാൽ ഈ എന്നത് ൽ നിന്ന് ലേക്കു മാപ്പ് ചെയ്യുന്നു അതിനാൽ ഈ A ഒരു മാട്രിക്സ് ആണെങ്കിൽ അത് ൽ നിന്ന്ഉള്ള ഒരു എലെമെന്റിനെ ലേ ഒരു എലെമെന്റിലേക്കു മാപ്പ് ചെയ്യുന്നു ഇത് എളുപ്പത്തിൽ കാണാനാകും നമ്മൾ ഇവിടെ ഒരു ഓർഡർ മാട്രിക്സ് പരിഗണിക്കുകയാണെങ്കിൽ അതിവിടെ a11 a12 a1n a21 a22 a2n എന്നിങ്ങനെയാണ് തുടർന്ന് ഈ m th വരി am1 am2 amn അവസാന ഘടകത്തിൽ നമ്മൾക്ക് amn ഉണ്ട് അതിനാൽ ഈ A ഈ m × n ഓർഡർന്റെ ഒരു മാട്രിക്സ് ആണ് നമ്മൾ ഈ പരിഗണിക്കുകയാണെങ്കിൽ ഇതിനർത്ഥം ഈ A ഇപ്പോൾ ഇവിടെ ഈ x കൊണ്ട് ഗുണിക്കും എന്നാണ് എന്നിവ ൽ നിന്നാണ് അതിനർത്ഥം അതിന് n ഘടകങ്ങളുണ്ട് അവ ഇപ്പോൾ നമ്മൾ ഈ ഗുണനം ചർച്ച ചെയ്താൽ എന്ത് സംഭവിക്കും ഈ ആദ്യ നിര ഈ കോളത്തിലേക്ക് ഗുണിക്കും ഈ രണ്ടാമത്തെ നിര ഈ കോളത്തിലേക്ക് ഗുണിക്കും അങ്ങനെ തുടരുന്നു അതിനാൽ നമുക്ക് ഈ m വരികൾ ലഭിക്കും ഇത് mth വരിയാണ് ഇത് ആദ്യ നിരയാണ് അതിനാൽ ഇവിടെ ഒരു പ്രോഡക്ട് എന്ന നിലയിൽ നമുക്ക് ഈ ൽ നിന്ന് ഒരു വെക്റ്റർ ലഭിക്കും കാരണം ഇതിന് m ഘടകം ഉണ്ടാകും അതിനാൽ ഈ വെക്റ്റർ ന്റെതാണ് അതിനാൽ നമുക്ക് m ക്രോസ് n ഓർഡറിന്റെ ഒരു മാട്രിക്സ് ഉള്ളപ്പോൾ നമ്മൾ ൽ നിന്ന് വെക്റ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ എന്നത് സ്പെയ്സിൽ ഒരു വെക്റ്റർ ആയിരിക്കും അതിനാൽ ഈ ഓർഡർന്റെ എല്ലാ മെട്രിക്സുകളും നമുക്ക് ലീനിയർ മാപ്പായി ചിന്തിക്കാം എന്തുകൊണ്ടാണ് ലീനിയർ മാപ്പ് അത്തരം മെട്രിക്സുകളുടെ പ്രോപ്പർട്ടികൾ കാരണം അതിനാൽ ആദ്യം നമ്മൾ കണ്ടത് ഈ Ax ഒന്നുമല്ല മറിച്ച് ഇത് മാപ്പിംഗ് ആണ് ഇത് ഇപ്പോൾ ൽ നിന്നുള്ള എലമെന്റ് ആണ് ഇത് ഈ ൽ y എന്ന ഒരു ഘടകം നൽകുന്നു അതിനാൽ ഇത് ൽ നിന്ന് ലേക്ക് മാപ് ചെയ്യുന്നു എന്നത് വ്യക്തമാണ് ലീനിയർ പ്രോപ്പർട്ടി നമ്മൾ ഈ പ്രയോഗിക്കുമ്പോൾ u v എന്നിവ ഈ ലെ ഘടകങ്ങൾ ആണ് അതിനാൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും ഇത് മാട്രിക്സിന്റെ തന്നെ പ്രോപ്പർട്ടി ആണ് ഉം അതാണ് നമ്മൾ ലീനിയർ മാപ്പിന് വേണ്ടി നോക്കുന്നതും ലീനിയർ മാപ്പിനെ തൃപ്തിപ്പെടുത്തേണ്ട പ്രോപ്പർട്ടികളിൽ ഒന്നാണിത് രണ്ടാമത്തേത് ആണ് അതിനാൽ എന്നത് ന് തുല്യമായിരിക്കും അത് നമ്മൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന മാട്രിക്സിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അതിനാൽ ലീനിയർ മാപ്പിംഗിന്റെ രണ്ട് പ്രോപ്പർട്ടികളും എന്ന ഓർഡറിന്റെ മാട്രിക്സിന് സംതൃപ്തമാണ് അതിനാൽ ഓരോ മാട്രിക്സ്ഉം ഈ മാട്രിക്സുകളുടെ എൻട്രികളെല്ലാം തീർച്ചയായും റിയൽ നമ്പറുകളാണ് ൽ നിന്ന് ലേക്ക് മാപ്പ് ചെയ്യുന്നു അതിനാൽ ഈ മാട്രിക്സ് ഒന്നുമല്ല അവ ലീനിയർ മാപ്പാണ് ഇത് ഈ ലെക്ച്ചർൽ നമ്മൾ കൂടുതൽ പര്യവേക്ഷണം ചെയ്യുന്ന മറ്റൊരു പ്രധാന പോയിന്റാണിത് ഉദാഹരണത്തിന് എന്ന റിലേഷൻ നൽകപ്പെട്ടിട്ടുള്ള എടുക്കുന്നു ഈ F ഒരു ലീനിയർ മാപ്പാണ് നമ്മൾ അത് പരിശോധിക്കേണ്ടതുണ്ട് രണ്ട് ഘടകങ്ങൾ u v എന്നിവ ൽ നിന്ന് എടുക്കുകയും തുടർന്ന് നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ടോ എന്നും രണ്ടാമത്തെ കണ്ടീഷൻ ആൽബം ഉണ്ടോ എന്നും പരിശോധിക്കുക എന്നതാണ് ചെയ്യേണ്ടത് അതിനാൽ ഈ മാപ്പിൽ നമുക്ക് ആ 2 കണ്ടീഷനുകൾ വെവ്വേറെ പരിശോധിക്കാവുന്നതാണ് വാസ്തവത്തിൽ നമ്മൾ ഇവിടെ നോക്കാനുള്ള മറ്റൊരു സാധ്യത ഈ ആണ് ഇപ്പോൾ മാട്രിക്സ് പ്രോപ്പർട്ടികൾ ഓർത്തെടുത്താൽ നമുക്ക് ഇത് മാട്രിക്സ് വെക്റ്റർ ഗുണിത രൂപത്തിൽ വയ്ക്കാം വെക്റ്റർ ഗുണനം ഈ രണ്ട് നിരകളും ഒരു മാട്രിക്സിന്റെ ആദ്യത്തേതും രണ്ടാമത്തേതുമായ കോളമായി ഇട്ടാൽ പിന്നെ വീണ്ടും ഈ കോളം വെക്റ്റർ അതിനാൽ ഈ ഗുണനം കൃത്യമായി s ടൈംസ് ഈ കോളം വെക്റ്ററും പ്ലസ് t ടൈംസ് കോളം വെക്ടറും നൽകുന്നു ഈ വെക്റ്ററുകൾ നമുക്ക് 2 1 4 ഉം 3 5 3 ആയ ഈ മാട്രിക്സ്ഉം അതോടൊപ്പം ഗുണിക്കണം മാട്രിക്സ് s t യും ആയി നമുക്ക് ഇത് എഴുതാം എന്നർത്ഥം അതിനാൽ നമ്മൾ ഇവിടെ ഈ ഉൽപ്പന്നം നോക്കുമ്പോൾ ഇത് കൃത്യമാണ് അപ്പോൾ ഈ മാട്രിക്സ് ലീനിയർ മാപ്പാണെന്ന് നമ്മൾ കണ്ടു അതിനാൽ നമ്മൾ മറ്റൊന്നും പരിശോധിക്കേണ്ടതില്ല കാരണം ഇത് മാട്രിക്സിന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ കഴിയും അതിനാൽ ഇത് ഒരു ലീനിയർ മാപ്പായിരിക്കു അതിനാൽ ഇത് ഒരു ലീനിയർ മാപ്പാണെന്ന് കാണിക്കാൻ ഇതിന്റെ അടിസ്ഥാനപരമായ ഡെറിവേഷൻ ഇല്ലാതെ നമ്മൾ ഒരു മാട്രിക്സ് മാപ്പായി പ്രതിനിധീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ രീതിയിൽ എടുത്തതാണ് അതിനാൽ ഈ F ഒരു ലീനിയർ മാപ്പാണ് കാരണം നമ്മൾ മാട്രിക്സിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് ഇത് എല്ലാ മാട്രിക്സുകളും ലീനിയർ മാപ്പാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കേർണലും ലീനിയർ മാപ്പിംഗിന്റെ ഇമേജും ആണ് F X → Y വീണ്ടും ഒരു ലീനിയർ മാപ്പാണെന്ന് കരുതുന്നു അത് X യിലെ എലെമെന്റുകളെ Y യിലെ എലെമെന്റുകളിലേക്ക് മാപ്പ് ചെയ്യുന്നു കെർണൽ F എന്നതിന്റെ നിർവചനമാണ് KerF അതിനാൽ ഇതാണ് ഇവിടെ കേർണൽ അതിനാൽ നമ്മൾക്ക് ഈ വെക്റ്റർ സ്പേസ് X ഉണ്ട് നമ്മൾക്ക് ഈ വെക്റ്റർ സ്പേസ് Y ഉണ്ട് എന്താണ് കേർണൽ X ലെ ഈ പോയിന്റുകളെല്ലാം നമ്മൾ ഇവിടെ ശേഖരിക്കും അവ Y ലെ 0 എലമെന്റ്ലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സെറ്റിനെ ഈ മാപ്പിംഗ് F ന്റെ കേർണൽ എന്ന് വിളിക്കും ത് F ന്റെ കേർണലിന്റെ നിർവചനമാണ് Y ലെ 0 എലമെന്റ്ലേക്ക് മാപ്പ് ചെയ്യുന്ന X ലെ എല്ലാ എലമെന്റ്കളും സ്വാഭാവികമായും കേർണലിൽ 0 ഘടകം ഉണ്ടായിരിക്കണം കാരണം ലീനിയർ മാപ്പിനായി 0 എലമെന്റ് 0 ലേക്ക് മാപ്പ് ചെയ്യണം അതിനാൽ ഈ കേർണലിൽ തീർച്ചയായും 0 ഉണ്ടാകും എന്നാൽ ഇവിടെ ഈ കേർണലിലെ 0 എലമെന്റല്ലാതെ മറ്റ് പല എലമെന്റ്കളും ഉണ്ടാകാം ഇമേജ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊന്ന് ഉണ്ട് Im അതിനാൽ നമ്മൾ ഇവിടെ പരിഗണിക്കുന്ന ചിത്രമാണ് നമ്മൾ സാധാരണയായി ചർച്ച ചെയ്യുന്നത് അതിനാൽ ഈ X ൽ നിന്നുള്ള ചില എലെമെന്റുകളുടെ മാപ്പായ Y ലെ എലെമെന്റുകളെ മാത്രമേ നമ്മൾ ശേഖരിക്കുകയുള്ളൂ So with this 2 definitions the Ker and the Im we let us just look at this simple example with This again its a projection map So this any element here in it maps to this point in plain that is Ker Im എന്നീ ഈ 2 നിർവചനങ്ങൾ ഉപയോഗിച്ച്ഉള്ള എന്ന ഈ ലളിതമായ ഉദാഹരണം നോക്കാം ഇത് വീണ്ടും ഒരു പ്രൊജക്ഷൻ മാപ്പ് ആണ് അതിനാൽ ഇവിടെ ലെ ഏത് എലമെന്റ്ഉം xy പ്ലെയിനിലെ x y 0 ഈ പോയിന്റിലേക്ക് മാപ്പ് ചെയ്യുന്നു അപ്പോൾ എന്താണ് Im അതിനാൽ Im നായി നമ്മൾ തിരയുന്നത് y യിലെ എല്ലാ ഘടകങ്ങളും ആണ് അവയുടെ പ്രീ ഇമേജുകൾ X ൽ ഉണ്ട് അതിനർത്ഥം ലെ എല്ലാ പോയിന്റുകളും ആണ് അതിന്റെ മൂന്നാമത്തെ ഘടകം 0 ആണ് കാരണം അവ Y ലെ എലെമെന്റുകൾഉം c 0 ആയിരിക്കുമ്പോൾ അനുബന്ധ മൂലകവും X ൽ ഉണ്ട് ഇത് a b എന്നിവയല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇവിടെ ഈ മാപ്പിംഗിന്റെ ഇമേജ് മറ്റൊന്നുമല്ല എല്ലാ പോയിന്റുകളും അതിന്റെ മൂന്നാമത്തെ ഘടകം 0 അതായത് എല്ലാ പോയിന്റുകളും അതിൽ എന്നിവ റിയൽ നമ്പറുകളിൽ നിന്നുള്ളവയാണ് അതിനാൽ ഇത് ആണ് ഇവിടെയുള്ള ഇമേജ് ഈ മൂന്നാമത്തെ ഘടകം 0 ഉള്ള എല്ലാ പോയിന്റുകളും നമ്മൾ ഇവിടെ സജ്ജമാക്കുമ്പോൾ ഇത് പ്ലെയ്നല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ മാപ്പിംഗ് മറ്റൊന്നുമല്ലെന്ന് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തതാണ് ഇത് ഈ യിലെ പോയിന്റ് പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യുന്നു അതാണ് നമ്മൾ സംസാരിക്കുന്ന പ്രൊജക്ഷൻ മാപ്പ് അതിനാൽ ഈ ഇമേജ് ഈ xy പ്ലെയ്നല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഇത് പോയിന്റിനെ xy പ്ലെയിനിലേക്ക് മാത്രം മാപ്പ് ചെയ്യുന്നു അതിനാൽ ഇമേജ് xy പ്ലെയിനിൽ ഉണ്ട് കേർണൽ എല്ലാം X ൽ നിന്നുള്ള മാപ്പാണ് അവയുടെ മാപ്പ് 0 ആണ് അവ 0 ലേക്ക് മാപ്പ് ചെയ്യുന്നു ഇവിടെ തന്നിരിക്കുന്ന ഈ ലീനിയർ മാപ്പിന്റെ നിർവചനം അനുസരിച്ച് ഇവിടെ ഏത് പോയിന്റും ഇത് x y 0 ലേക്ക് മാപ്പ് ചെയ്യുന്നു മൂന്നാമത്തേത് 0 ആയി സജ്ജമാക്കും X ലെ എലമെന്റ്കൾ അവയുടെ മാപ്പ് 0 എലമെന്റ് ആണോ ആ എല്ലാ എലമെന്റ്കളും നമ്മൾക്ക് വേണം അതിനാൽ ഇവിടെ a b 0 ഒരു പോയിന്റ് എലെമെന്റു എടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ ഈ മാപ്പ് പ്രയോഗിക്കുമ്പോൾ ഫസ്റ്റ് കോംപോണേന്റ് 0 സെക്കന്റ് കോംപോണേന്റ് 0 അതിനാൽ ഇത് 000 മൂലകമല്ലാതെ മറ്റൊന്നുമല്ല ലെ 0 എലെമെന്റാണ് ഇത് അതിനാൽ ഈ ൽ നമ്മൾ ആ പോയിന്റുകൾക്കായി തിരയുന്നു കാരണം അവയുടെ ഇമേജ് y ലെ 0 ഘടകമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇത് ഈ മാപ്പിംഗിന്റെ കേർണൽ ഫോം ചെയ്യുന്നു ഇത് കൃത്യമായി z ആക്സിസ് ആണ് കാരണം z ആക്സിസ്ൽ x ഉം y ഉം 0 ആകുന്നു അതിനാൽ മുഴുവൻ z ആക്സിസും ലെ 0 എലെമെന്റ്ലേക്ക് മാപ്പ് ചെയ്യപ്പെടും ഇവിടെ സ്വാഭാവികമാണ് കാരണം Z ആക്സിസിന്റെ പ്രൊജക്ഷൻ എടുക്കുമ്പോൾ അത് ഒറിജിൻല്ലാതെ മറ്റൊന്നുമല്ല അതായത് ലെ 0 എലെമെന്റ് അതിനാൽ ഇവിടെ ഇമേജ് xy പ്ലെയിൻ ആണ് F ന്റെ കേർണൽ z ആക്സിസ് അല്ലാതെ മറ്റൊന്നുമല്ല കാരണം മുഴുവൻ z ആക്സിസും ഈ ഒറിജിൻലേക്ക് മാപ്പിംഗ് ചെയ്യുന്നു ഇമേജ് ഇവിടെ അർത്ഥമാക്കുന്നത് ഈ മാപ്പിംഗിന്റെ ഇമേജ് ആയിട്ടുള്ള xy പ്ലെയിൻലെ എല്ലാ പോയിന്റുകളും എന്നാണ് ഇവിടെ നമുക്ക് തിയറമുണ്ട് F X → Y ഒരു ലീനിയർ മാപ്പിംഗ് ആയിരിക്കട്ടെ തുടർന്ന് കേർണൽ ഓഫ് F X ന്റെ ഒരു സബ് സ്പേസും ഇമേജ് ഓഫ് F Y ന്റെ ഒരു സബ് സ്പേസും ആണ് നമ്മൾ ഇത് ഇവിടെ ഔപചാരികമായി തെളിയിക്കാൻ പോകുന്നില്ല പക്ഷേ കേർണലിന്റെയും ഈ ഇമേജ്ന്റെയും നിർവചനം അനുസരിച്ച് ഇത് വളരെ ലളിതമാണ് കേർണൽ എന്നത് ഇവിടെ 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും എന്നതിനാൽ അവ ഒരു സബ്സ്പേസ് ആയി മാറുമെന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എടുക്കുകയും അവ 0 ലേക്ക് മാപ്പ് ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അവയുടെ ആകെത്തുകയും 0 ലേക്ക് മാപ്പ് ചെയ്യും അതിനാൽ അഡിഷൻ ഇവിടെ ഒരേ കേർണലിന്റേതായിരിക്കും അതുപോലെ തന്നെ ഇമേജ്നും നമുക്ക് പരിഗണിക്കാം കൃത്യമായി അതേ പരിഗണന അതിനാൽ ഈ കേർണലും ഇമേജും അവ സബ്സ്പേസ് ഉണ്ടാക്കുന്നു നമുക്ക് മറ്റൊരു പ്രധാന തിയറമുണ്ട് അത് പിന്നീട് ഉപയോഗിക്കും ഈ ഒരു വെക്റ്റർ സ്പേസ് X ന്റെ സ്പാൻ ആണെന്നും ഈ F ഒരു ലീനിയർ മാപ്പ് ആണെന്നും കരുതുക അപ്പോൾ ഈ പോയിന്റുകളുടെ ഇമേജ് അതായത് X ന്റെ സ്പാനിലെ വെക്ടറുകളുടെ ഇമേജ് എന്നിവ ഇമേജ് ഓഫ് F നെ സ്പാൻ ചെയ്യും അത് വളരെ നല്ല പോയിന്റാണ് വെക്റ്റർ സ്പേസ് X ൽ നിന്നുള്ള വെക്റ്ററുകൾ നമുക്ക് അറിയാമെങ്കിൽ ഈ വെക്റ്ററുകൾ വെക്റ്റർ സ്പേസ് X നെ സ്പാൻ ചെയ്യുമെന്നും അറിയാമെങ്കിൽ അതോടൊപ്പം മാപ്പിംഗ് F എന്താണെന്നും അറിയുമെങ്കിൽ എന്നിവ ഇമേജ് F നെ സ്പാൻ ചെയ്യുന്നു പ്രൂഫിനുള്ള ആശയം വളരെ ലളിതമാണ് നമ്മൾ ഇപ്പോൾ ഇമേജ് F ൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു അതിനാൽ അവിടെ ഒരു X നിലനിൽക്കുകയും ചെയ്യുന്നു കാരണം ഇത് ഇമേജിലെ ഒരു പോയിന്റാണ് അതിനാൽ ഈ വെക്റ്റർ സ്പേസ് X ൽ ആയിട്ടുള്ള ഒരു ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മൾ ഈ x എടുക്കുന്നു ഈ വെക്റ്റർ സ്പേസിന്റെ ഏത് ഘടകത്തെയും എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുകളായി പ്രതിനിധീകരിക്കാം xi കളുടെ അതായത് ഈ xi കളുടെ ലീനിയർ കോമ്പിനേഷൻ കാരണം എന്നിവ വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നവയാണ് അതിനാൽ ഈ x നെയും എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനായി റെപ്രെസെന്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ x ൽ ഈ ലീനിയർ മാപ്പ് F പ്രയോഗിക്കുന്നു ഇത് സ്വാഭാവികമായും y എന്ന ഘടകം നൽകും അതിനാൽ x ലെ ഈ F ഉം മാപ്പിന്റെ ലിനിയാരിറ്റിയും കാരണം നമുക്ക് ഈ F നെ ഈ xi കൾക്കുള്ളിൽ കൊണ്ടുപോകാം കാരണം ഇവ കോൺസ്റ്റന്റുകളാണ് അതാണ് ലീനിയർ മാപ്പിന്റെ നിർവചനം അതിനാൽ നമ്മൾക്ക് എന്ന് ഉണ്ട് ഇത് ലിനിയാരിറ്റി മൂലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ y ഘടകം ഈ ന്റെ ലീനിയർ കോമ്പിനേഷനാണ് കൂടാതെ വെക്റ്റർ സ്പെയ്സിലെ y എന്ന ഏത് ഘടകവും നമുക്ക് ലീനിയർ കോമ്പിനേഷനായി എഴുതാം അത് കൊണ്ട് ഈ വെക്റ്ററുകൾ ഇമേജ് ഓഫ് F നെ സ്പാൻ ചെയ്യുന്നു അടുത്തതായി മാട്രിക്സ് മാപ്പിംഗിന്റെ കേർണലും ഇമേജും ഇവിടെയുണ്ട് ഈ മാട്രിക്സും ലീനിയർ മാപ്പുകളാണ് അതിനാൽ ഈ 3 വരികളുടെയും 4 നിരകളുടെയും ഈ ലളിതമായ ഉദാഹരണം നിങ്ങൾ വേഗത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ സാധാരണ ബെയ്സിസും എടുക്കുന്നു ൽ നിന്നുള്ള ന്റെ അടിസ്ഥാന ബെയ്സിസ് ഇവയാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പത്തെ തിയറമനുസരിച്ച് എന്നിവ A യുടെ സ്പാൻ ചെയ്യുമെന്ന് നമുക്കറിയാം ഇവ ലെ വെക്റ്ററുകൾ ആണ് ഇവയാണ് ഇമേജിലെ വെക്റ്ററുകൾ ഈ വെക്റ്ററുകൾ ഇവിടെ ഈ വെക്റ്ററുകൾ ഇമേജിനെ സ്പാൻ ചെയ്യുമെന്ന് മുൻ തിയറത്തിൽ നിന്ന് നമുക്കറിയാം ഈ ഇമേജിന്റെ സ്പാനിങ് വെക്ടറുകൾ ൽ നിന്നുള്ളതാണെന്ന് നമുക്കറിയാം അതിനാൽ ഈ A യുടെ ഇമേജ് ഇവ എന്താണ് ഇവ ഇവിടെയുള്ള നിരകൾ ആണ് ഈ നൽകിയ മാട്രിക്സിന്റെ നിരകളാണിവ അതിനാൽ ഇമേജ് മറ്റൊന്നുമല്ല ഈ നിരകളുടെ സ്പാൻ ആണ് അതിനാൽ കൃത്യമായി A യുടെ കോളം സ്പേസ് ആണ് അതിനാൽ ഇവിടെ മെട്രിക്സുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോളം സ്പേസ് മറ്റൊന്നുമല്ല എന്നാൽ അവ കോളം സ്പെയ്സിനെ സ്പാൻ ചെയ്യുന്നു അത് അല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ കേർണൽ എന്നത് ഇവിടെയുള്ള 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ പോയിന്റുകളും ആയിരിക്കും അതിന്റെ അർത്ഥം നമ്മൾ ൽ എല്ലാ x പോയിന്റുകളും തിരയുന്നു അവയുടെ മാപ് ലെ 0 ആയിരിക്കും അതിനാൽ നമ്മൾ കൃത്യമായി എന്താണ് നോക്കുന്നത് ഈ മാട്രിക്സ് A യുടെ നൾ സ്പേസ് ആണ് നമ്മൾ തിരയുന്നത് എന്നർത്ഥം കാരണം നൾ സ്പേസിന്റെ നിർവചനം അതായിരുന്നു അതായത് ഈ സമവാക്യ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ നമുക്ക് നൾ സ്പേസ് നൽകുന്നു ഇവിടെ കേർണലുകളുടെ രൂപത്തിലുള്ള നൾ സ്പേസ് അത് നൾ സ്പേസ് ഓഫ് മാട്രിക്സ് A ക്ക് തുല്യമാണ് അതാണ് മാട്രിക്സ് മാപ്പിംഗിന്റെ കേർണൽ അവസാനത്തേത് ഇവിടെ ഒരു ലീനിയർ മാപ്പിന്റെ റാങ്കും നള്ളിറ്റിയുമാണ് അതിനാൽ ഇമേജ് A ഓർക്കുന്നുവെങ്കിൽ അത് A യുടെ കോളം സ്പേസ് ആണ് തുടർന്ന് മാട്രിക്സിന്റെ റാങ്ക് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് കോളം സ്പേസിന്റെ ഡയമെന്ഷന് ആയിരുന്നു അതിനാൽ ഇവിടെ ലീനിയർ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലീനിയർ മാപ്പിന്റെ റാങ്ക് എന്നത് Image of F ന്റെ ഡയമെന്ഷനായിരിക്കും അതിനാൽ Image of F റാങ്കായിരിക്കും റാങ്കിന്റെ കൂടുതൽ പൊതുവായ നിർവചനമാണിത് മാട്രിക്സിന്റെ കാര്യത്തിൽ പ്രത്യേക കേസ് ആയി നമ്മൾ മാട്രിക്സിന്റെ റാങ്ക് ആശയം പ്രത്യേകം ചർച്ച ചെയ്തു മാട്രിക്സിന്റെ റാങ്ക് കോളം സ്പേസിന്റെ ഡയമെന്ഷൻ ആയിരുന്നു എന്നാൽ ഇവിടെ നമുക്ക് Image of F ന്റെ ഡയമെന്ഷൻ എന്ന കൂടുതൽ പൊതുവായ പദങ്ങളുണ്ട് അതിനാൽ ഈ കേർണൽ F എന്നത് Image of F ന്റെ ഡയമെന്ഷൻല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ തന്നെ കേർണൽ A എന്നത് Null space of A യിരുന്നു ഇവിടെ വീണ്ടും ഈ നള്ളിറ്റിയെ നമ്മൾ നൾ സ്പേസിന്റെ ഡയമെന്ഷൻ എന്ന് വിളിക്കുന്നു അത് നമ്മൾ ഇതിനകം മുമ്പ് ചർച്ച ചെയ്തതാണ് അതിനാൽ നള്ളിറ്റി കേർണലിന്റെ ഡയമെന്ഷൻല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇവ രണ്ടും വീണ്ടും നമുക്ക് കേർണലിനെക്കുറിച്ചുള്ള രണ്ട് നിർവചനങ്ങൾ നൽകുന്നുണ്ട് അത് നമ്മൾ മെട്രിക്സിനായി ചർച്ച ചെയ്ത റാങ്കിന്റെ നിർവചനത്തേക്കാൾ പൊതുവായതാണ് അതിനാൽ ഇവിടെ rank of എന്നത് ഇമേജ് Fന്റെ ദയമെന്ഷന് ആണ് നള്ളിറ്റി കേർണലി F ന്റെ ഡയമെന്ഷനുമാണ് നമുക്ക് ഒരു തിയരമുണ്ട് X ഒരു ഫൈനൈറ്റ് ഡയമെന്ഷനൽ വെക്റ്റർ സ്പേസ് F ഒരു ലീനിയർ മാപ് ആണെന്നിരിക്കട്ടെ അപ്പോൾ ഈ റാങ്ക് പ്ലസ് നള്ളിറ്റി X ന്റെ ഡയമെന്ഷന് തുല്യമാണ് ഈ റാങ്ക് നള്ളിറ്റി സിദ്ധാന്തം മെട്രിക്സിനായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ റാങ്ക് പ്ലസ് നള്ളിറ്റി വേരിയബിളുകളുടെ എണ്ണം n ആയിരുന്നു ഇവിടെ ഈ സാഹചര്യത്തിൽ A എന്നത് ൽ നിന്നു ലേക്ക് ഉള്ള മാപ് ആയതിനാൽ അതിവിടെ കൃത്യമായി ഈ ഡൊമെയ്നിന്റെ ഡയമെന്ഷൻ അതായത് ഡയമെന്ഷൻ of X ആണ് അതിനാൽ എന്നത് മെട്രിക്സിനായി നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ പൊതുവായ ഫലമാണ് ഇവിടെ നിഗമനത്തിലെത്തുന്നു നമ്മൾ ലീനിയർ മാപ്പ് ചർച്ച ചെയ്യുകയും ലീനിയർ മാപ്പ് തെളിയിക്കാൻ നമ്മൾ ഈ പ്രയോഗിക്കുകയും ചെയ്തു ഇങ്ങനെയാണെങ്കിൽ നൽകിയിരിക്കുന്ന മാപ്പ് F നെ ലീനിയർ മാപ്പാണെന്ന് നമ്മൾ വിളിക്കുന്നു മാട്രിക്സുകളെല്ലാം ലീനിയർ മാപ്പുകളാണെന്ന് നമ്മൾ കണ്ടു മാട്രിക്സ് m × n ക്രമത്തിലാണെങ്കിൽ അവ ൽ നിന്ന് ലേക്ക് മാപ്പ് ചെയ്യുന്നുവെന്നും നമ്മൾ കണ്ടു A യുടെ ഈ ഇമേജ് A യുടെ കോളം സ്പേസ് അല്ലാതെ മറ്റൊന്നുമല്ല ഈ ലീനിയർ മാപ്പിംഗ് മാട്രിക്സ് A യുടെ കേർണൽ A യുടെ നൾ സ്പേസ് മാത്രമാണ് ഇവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റഫറൻസുകൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി